നമ്മൾ ഇതുവരെ ഓപ്പൺ ലൂപ്പുകളിൽ കൺവെർട്ടറുകൾ പഠിച്ചു ബക്ക് ബൂസ്റ്റ് ബക്ക് കൺവെർട്ടർ ബൂസ്റ്റ് കൺവെർട്ടർ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ ഫോർവേഡ് ഫ്ലൈ ബാക്ക് ഹാഫ് ബ്രിഡ്ജ് ഫുൾ ബ്രിഡ്ജ് പുഷ് പുൾ തുടങ്ങിയ കൺവെർട്ടറുകൾ പഠിച്ചു അവിടെ എല്ലാം ഓപ്പൺ ലൂപ്പ് ഓപ്പറേഷൻ വിവരിച്ചു എന്നാൽ ഇൻപുട്ട് വോൾട്ടേജിൽ വ്യതിയാനം താപനിലയിലെ വ്യതിയാനം അല്ലെങ്കിൽ ലോഡിലെ വ്യതിയാനം എന്നിവയിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് Vo നിയന്ത്രിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ സ്ഥിരമായ മൂല്യം നിലനിർത്തുന്നതിനുവേണ്ടി ഔട്ട്പുട്ട് വോൾട്ടേജ് നന്നായി നിയന്ത്രിക്കപ്പെടണം ഏതെങ്കിലും തരത്തിലുള്ള പവർ സപ്ലൈക്ക് വേണ്ടി നമ്മുടെ മുന്നിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യം ഇതായിരിക്കും ഇപ്പോൾ അത് ചെയ്യുന്നതിന് നമുക്ക് കൺട്രോളറും ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഫീഡ്ബാക്കും ആവശ്യമാണ് കൂടാതെ കൺട്രോളർ എററിനെ അടിസ്ഥാനമാക്കി ഒരു തീരുമാനം എടുക്കുകയും അതിനനുസരിച്ച് ഡ്യൂട്ടി സൈക്കിൾ മാറ്റുകയും വേണം ഇത് യഥാർത്ഥത്തിൽ മിക്ക DC DC കൺവെർട്ടറുകളിലെ കൺട്രോളറുകൾക്കും കൺട്രോൾ ഇൻപുട്ടാണ് അതിനാൽ ഈ നിയന്ത്രണം ചെയ്യുന്നതിനായി Vo ഫീഡ് ബാക്ക് ചെയ്യുകയും റഫറൻസുമായി താരതമ്യം ചെയ്യുകയും ആനുപാതികമായ ഇന്റഗ്രൽ അല്ലെങ്കിൽ PID പ്രൊപ്പോഷണൽ ഇന്റഗ്രൽ ഡെറിവേറ്റീവ് തരത്തിലുള്ള കൺട്രോളറിലേക്ക് കൈമാറുകയും അതിന്റെ ഔട്ട്പുട്ട് PWM മോഡുലേറ്റർ പൾസ് വിഡ്ത്ത് മോഡുലേറ്ററിലേക്കും ഒടുവിൽ മിക്കവാറും ഗേറ്റ് ഡ്രൈവിലേക്കും പോകും അതുപോലെ എല്ലാ ഓപ്പൺ ലൂപ്പ് DC DC കൺവെർട്ടറുകളിലും ഇതുവരെ ഉപയോഗിച്ചിരുന്ന നിയന്ത്രിക്കാവുന്ന സ്വിച്ചിലേക്കും അതിനാൽ ലൂപ്പ് അടയ്ക്കുമ്പോൾ ഇതായിരിക്കും പ്ലാൻ വീഡിയോ ലെക്ചറിന്റെ ഈ വിഭാഗത്തിൽ കൺവെർട്ടറുകൾ ക്ലോസ് ലൂപ്പുചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ശ്രമിക്കും അതിനാൽ ഞാൻ ബക്ക് കൺവെർട്ടർ ബൂസ്റ്റ് കൺവെർട്ടർ പോലുള്ള ഉദാഹരണങ്ങൾ എടുത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് രീതിയിൽ ലൂപ്പ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയും തുടർന്ന് കൺട്രോളർ എങ്ങനെ പ്രവർത്തിക്കുന്നുയെന്ന് നോക്കുകയും ചെയ്യും തുടർന്ന് ഞങ്ങൾക്ക് ചില സിമുലേഷൻ ഉദാഹരണങ്ങൾ നോക്കാം അതുവഴി DC DC കൺവെർട്ടറുകളുടെ ക്ലോസ് ലൂപ്പ് ഓപ്പറേഷൻ എങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് പരിശീലനം ലഭിക്കും ഭാവിയിൽ നിങ്ങൾ നേരിട്ടേക്കാവുന്ന ഐസൊലേറ്റഡ് കൺവെർട്ടറുകളിലും മറ്റ് DC DC ഓപ്പൺ ലൂപ്പ് കൺവെർട്ടറുകളിലും സമാനമായ ആശയം പ്രയോഗിക്കാൻ കഴിയും ബക്ക് കൺവെർട്ടറിന്റെ ക്ലോസ് ലൂപ്പ് പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം മറ്റേതെങ്കിലും തരത്തിലുള്ള കൺവെർട്ടർ ആണെങ്കിൽ പോലും ഈ പ്രക്രിയ സമാനമാണ് അതിനാൽ നമുക്ക് ആദ്യം ബക്ക് കൺവെർട്ടർ സർക്യൂട്ട് വരയ്ക്കാം നമുക്ക് ഒരു ഇൻപുട്ട് ഉണ്ട് അത് ബാറ്ററിയിൽ നിന്നാണ് വരുന്നതെന്ന് പറയാം അത് റക്റ്റിഫയറിന്റെ ഔട്ട്പുട്ടിൽ നിന്നും വരാം എനിക്ക് ഒരു സ്വിച്ച് ഉണ്ടെന്ന് പറയാം ഇപ്പോൾ ഞാൻ ഒരു BJT ആയി കാണിക്കുന്ന ഈ സ്വിച്ച് ഒരു IGBT അല്ലെങ്കിൽ ഒരു MOSFET ആയിരിക്കാം കൂടാതെ എനിക്ക് ഈ ഡയോഡും തുടർന്ന് ഔട്ട്പുട്ട് ഫിൽട്ടർ സർക്യൂട്ടും ഉണ്ട് അത് ഇൻഡക്ടറും കപ്പാസിറ്റർ കോമ്പിനേഷനും ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ബക്ക് കൺവെർട്ടർ സർക്യൂട്ട് നന്നായി പരിചിതമാണ് ഇപ്പോൾ ഇതാണ് ബക്ക് കൺവെർട്ടർ സർക്യൂട്ട് ഇതാണ് Ro അതിലുടനീളമുള്ള വോൾട്ടേജ് Vo ആണ് ട്രാൻസിസ്റ്ററിന്റെ ബെയിസിലേക്കു ഗേറ്റ് ഡ്രൈവ് നൽകുന്നുവെന്നും പറയാം നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ ഇതിനെയാണ് നിങ്ങൾ സെൻസ് വേരിയബിൾ എന്ന് വിളിക്കുന്നത് ഇതാണ് കൺട്രോൾ വേരിയബിൾ അല്ലെങ്കിൽ കൺട്രോൾ ഇൻപുട്ട് ഇവിടെയുള്ള കൺട്രോൾ ഇൻപുട്ടിൽ ഡിയിലെ വ്യതിയാനമുണ്ട് ഡ്യൂട്ടി സൈക്കിളിലെ വ്യതിയാനം അതിനാൽ ഔട്ട്പുട്ട് ഉചിതമായ സർക്യൂട്ട് വഴി കടന്നുപോകുന്നത് നമുക്ക് മനസ്സിലാക്കാം ആംപ്ലിഫൈഡ് അല്ലെങ്കിൽ അറ്റൻവേറ്റ് ചെയ്തത് ഡിഫറൻസ് ആംപ്ലിഫയറിലെ ഒരു കംപരറേറ്ററിലേക്കു കൊണ്ടുവരിക ഇവിടെ നമുക്ക് Vo റഫറൻസ് സജ്ജമാക്കാം ഇതാണ് Vo റഫറൻസ് ആവശ്യപ്പെടുന്നത് എന്താണ് വേണ്ടത് ഫീഡ്ബാക്ക് മൂല്യത്തെ Vo റഫറൻസ് മൂല്യവുമായി താരതമ്യം ചെയ്യേണ്ടതുണ്ട് വ്യത്യാസം എറർ e നൽകുന്നു എറർ താരതമ്യം ചെയ്യുന്നു ഇപ്പോൾ കൺവെർട്ടറിന്റെ സ്വിച്ചിംഗ് ഫ്രീക്വൻസി നിർണ്ണയിക്കുന്നതും നിർവചിക്കുന്നതുമായ ട്രയാംഗിൾ കാരിയറാണ് ഇത് ഈ Vc കംപയർ സിഗ്നലാണ് ഇത് Vc കൺട്രോൾ വോൾട്ടേജ് ആണെന്ന് നമുക്ക് പറയാം ത്രികോണത്തിനായുള്ള കംപയർ സിഗ്നലാണ് ഇത് മോഡുലേഷൻ ഉണ്ടാക്കും PW മോഡുലേഷൻ അതിനാൽ ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ PWM സർക്യൂട്ട് ആണ് ഇത് ഒരു ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് ഗേറ്റ് അല്ലെങ്കിൽ ഒരു ബേസ് ഡ്രൈവ് എന്നിവയിലൂടെ കടന്നുപോകുകയും എന്നിട്ടു പവർ സെമികണ്ടക്ടർ സ്വിച്ചിന്റെ ഗേറ്റിലേക്കോ ബെയിസിലേക്കോ നൽകും അതിനാൽ ഒരു ബ്ലോക്ക് സ്കീമാറ്റിക് രീതിയിൽ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഇങ്ങനെയാണ് കാണപ്പെടുന്നത് അതിനാൽ സിസ്റ്റത്തിന്റെ നീല ഭാഗം ഇവിടെയുണ്ട് ഈ പേജിൽ ഈ നീല ഭാഗമെല്ലാം ഓപ്പൺ ലൂപ്പ് സിസ്റ്റമാണ് നീല ഭാഗത്ത് നിങ്ങൾ കൺട്രോൾ Vc ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജായി നൽകിയതായി കണ്ടു അതിനെ റാമ്പുമായി താരതമ്യപ്പെടുത്തി അതാണ് PW മൊഡ്യൂൾ അവ താരതമ്യപ്പെടുത്തുക PWM ജനറേഷൻ ഗേറ്റ് ഡ്രൈവ് പവർ സെമികണ്ടക്ടർ സ്വിച്ചിന് സ്വിച്ച് ഓൺ ഓഫ് അവസ്ഥയായി നൽകുകയും ബാക്കിയുള്ളതെല്ലാം നീല ഭാഗത്തിലേക്കോ പവർ സർക്യൂട്ട് ഭാഗത്തേക്കോ നൽകുകയും ചെയ്യുന്നു അതിനാൽ Vc കോൺസ്റ്റന്റും ഈ ഭാഗങ്ങളെല്ലാം പവർ ഘടകങ്ങളും ചേർന്ന് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ഉണ്ടാക്കുന്നു ഇപ്പോൾ ചേർത്തത് ഒരു സെൻസ് സർക്യൂട്ട് ആണ് അത് ഔട്ട്പുട്ട് വോൾട്ടേജ് അളക്കേണ്ട ഒരു സെൻസ് സർക്യൂട്ട് ആണ് അത് കൃത്യമായ രീതിയിൽ നിയന്ത്രിച്ച് ഉചിതമായി വർദ്ധിപ്പിക്കുകയോ അറ്റൻയൂട്ട് ചെയ്യുകയോ തുടർന്ന് ഫിൽട്ടർ ചെയ്യുകയോ ചെയ്യുക തുടർന്ന് കംപാരറ്ററിലേക്കു കൊടുക്കുക അത് ഫീഡ്ബാക്ക് സിഗ്നലിനെ ഒരു റഫറൻസ് സിഗ്നലുമായി താരതമ്യപ്പെടുത്തും ഇത് യഥാർത്ഥത്തിൽ സെറ്റ് പോയിന്റാണ് ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന മൂല്യം Vo ആത്യന്തികമായി എന്തായിരിക്കണം അതുമായി താരതമ്യപ്പെടുത്തുക സെറ്റ് പോയിന്റ് റഫറൻസ് മൂല്യവും ഫീഡ്ബാക്ക് മൂല്യവും തമ്മിലുള്ള വ്യത്യാസം കാരണം ഒരു എറർ സിഗ്നൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എറർ കൺട്രോളറിന് നൽകി കൺട്രോളർ ഒരു ഔട്ട്പുട്ട് സൃഷ്ടിക്കും അത് Vc ആണ് ഇത് ട്രൈയാംഗുലർ കാരിയറുമായി താരതമ്യപ്പെടുത്തുകയും PWM ജനറേറ്റ് ചെയ്യുകയും എററിന് അനുസൃതമായി ട്രാൻസിസ്റ്റർ ഓണും ഓഫും ചെയ്യുകയും ഇവിടെ എറർ പൂജ്യമാക്കുകയും ചെയ്യുന്നു ഒരിക്കൽ ഇവിടെ എറർ പൂജ്യമായി പോയാൽ Vo ഫീഡ്ബാക്കും Vo റഫറൻസും ഒരുപോലെയാണ് Vin ലെ മാറ്റങ്ങൾ താപനിലയിലെ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ലോഡിലെ മാറ്റങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഔട്ട്പുട്ട് ഇവിടെ സ്ഥിരമായി നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് നമുക്ക് പറയാം ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം നിയന്ത്രണ സംവിധാനം ഇങ്ങനെയായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതാണ് നിങ്ങൾക്ക് പവർ സർക്യൂട്ടിന്റെ ഈ നീല ഭാഗം വ്യത്യസ്ത DC DC കൺവെർട്ടറുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം നിങ്ങൾക്ക് ഒരു ബൂസ്റ്റ് കൺവെർട്ടർ ബന്ധിപ്പിക്കാം നിങ്ങൾക്ക് ഇത് ഒരു ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം എന്നാൽ നിർദ്ദിഷ്ട പവർ സെമികണ്ടക്ടർ ഉപകരണത്തിന് ഉചിതമായ രീതിയിൽ കൺട്രോൾ ഇൻപുട്ട് നൽകുക അത് പ്രത്യേക സ്ഥാനമാണ് കാരണം കൺവെർട്ടർ ഓണാക്കാനും ഓഫാക്കാനുമുള്ള ജോലി നിർവഹിക്കുകയും സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് ആയി പ്രവർത്തിക്കുകയും ചെയ്യും അതുപോലെ ഐസൊലേറ്റഡ് കൺവെർട്ടറുകൾ ആയ ഫോർവേഡ് ഫ്ലൈ ബാക്ക് കൺവെർട്ടറുകളും മറ്റ് തരത്തിലുള്ള കൺവെർട്ടറുകളും ഇത് നൽകാം സിമുലേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ കൺട്രോളർ വശം കുറച്ചുകൂടി പരിശോധിക്കാം ഇപ്പോൾ കൺട്രോളർ പരിഗണിക്കുക നമുക്ക് ഈ 3 വേരിയബിളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം e Vc കൺട്രോളറിന്റെ ഗെയിൻ ഞാൻ PI സൂചിപ്പിച്ചു അത് ഒരു പ്രൊപ്പോഷണൽ ഇന്റഗ്രൽ കൺട്രോളർ ആണ് എന്നാൽ ഞാൻ ഇത് മായ്ച്ച് ഒരു പൊതു നേട്ടം k ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം ഞാൻ ഇവിടെ മൂല്യം k നൽകട്ടെ ഇപ്പോൾ ഇത് കൺട്രോളറിന്റെ നേട്ടമാണ് ഈ 3 വേരിയബിളുകളുടെ പ്ലേ നോക്കാൻ ശ്രമിക്കാം e k Vc e എന്നത് കൺട്രോളറിലേക്കുള്ള എറർ ഇൻപുട്ടാണ് Vc ആണ് കണ്ട്രോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് അതിനാൽ അവ ഇനിപ്പറയുന്ന രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു e എറർ Vc k ന് തുല്യമാണ് ഇപ്പോൾ നേരെയുള്ള ബന്ധം ആണ് ഇപ്പോൾ e 0 ആണ് ഇപ്പോൾ നമ്മൾ ഉത്തരം നൽകേണ്ട ഒരു പ്രധാന ചോദ്യമാണിത് e എപ്പോഴാണ് പൂജ്യത്തിന് തുല്യമെന്ന് നമുക്ക് പറയാം ഇപ്പോൾ സമവാക്യം നോക്കുമ്പോൾ e എന്നത് 0 ആണ് ഒന്നുകിൽ ആദ്യ കേസ് Vc 0 അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് k ഇൻഫിനിറ്റിയിലേക്ക് പ്രവണത കാണിക്കുന്നു ഇനി നമുക്ക് ആദ്യത്തെ കേസ് എടുക്കാം Vc 0 ആണെങ്കിൽ ഈ ഘട്ടത്തിൽ ഞാൻ അതിനെ ഗ്രൌണ്ട് ചെയ്യാം എന്നതിന്റെ അർത്ഥമെന്താണ് ഈ പോയിന്റ് ഗ്രൌണ്ട് ചെയ്തിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ആ പോയിന്റ് ഗ്രൌണ്ട് ചെയ്ത നിമിഷം ഇതിനർത്ഥം ഈ കൺട്രോളറുകളെല്ലാം ഇടുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഓപ്പൺ ലൂപ്പ് ഓപ്പറേഷനിൽ നമ്മൾ Vc ക്ക് വോൾട്ടേജിന്റെ ഒരു നിശ്ചിത മൂല്യം നൽകിയതുപോലെ ആണത് ഇത് ഒരു ഓപ്പൺ ലൂപ്പ് ഓപ്പറേഷനായി മാറുന്നു മുഴുവൻ സർക്യൂട്ടും ഓപ്പൺ ലൂപ്പിൽ ആണ് പിന്നെ ക്ലോസ് ലൂപ്പ് ചെയ്യുന്നതിന്റെ അർത്ഥമെന്താണ് അതിനാൽ ക്ലോസ് ലൂപ്പ് പ്രവർത്തനങ്ങൾ നിലവിലില്ല അതിനാൽ നമുക്ക് Vc 0 ആക്കാനാകില്ല നമുക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് പോകാം k അനന്തതയിലേക്ക് പ്രവണത കാണിക്കുന്നു k അനന്തതയാണെങ്കിൽ Vc യുടെ മൂല്യം എന്തുതന്നെ ആയാലും Vc ഇൻഫിനിറ്റി അത് എനിക്ക് 0 എറർ നൽകും PI കൺട്രോളറിന്റെ കാര്യത്തിൽ PI കൺട്രോളറിന് ഗെയിൻ k ഉണ്ട് സിസ്റ്റം DC സാഹചര്യത്തിലേക്കോ സ്ഥിരതയുള്ള സാഹചര്യത്തിലേക്കോ പോകുന്നതിനാൽ ഇത് അനന്തമാണ് ഉദാഹരണമായി ഞാൻ ആദ്യ ഘട്ടം എടുക്കാം ഒരു I യുടെ കാര്യത്തിൽ ഇത് ഒമേഗ വേർസ്സ് ഒമേഗയാണ് ഇത് dB ആണ് ഗെയിൻ dB യിൽ ആണ് I യുടെ ഗെയിൻ dB യിൽ ആണ് അതിനാൽ നമുക്ക് ആദ്യം I എടുക്കാം I എന്താണ് ഒരു ഇന്റഗ്രൽ ആണ് നമുക്ക് 1 s എന്ന് പറയാം 1 s എന്നത് 20 dB പെർ ഡെകേടിൽ പോകുന്ന ഒരു ബോഡ് പ്ലോട്ടല്ലാതെ മറ്റൊന്നുമല്ല ω 0 ൽ മൂല്യം എന്താണ് ω 0 ഇവിടെ ഗെയിൻ അനന്തമാണ് I ഒരു ഇന്റഗ്രൽ ആണെങ്കിൽ ഗെയിൻ I യിൽ അനന്തമായിരിക്കും അതായത് എറർ 0 ആണ് അതിനാൽ Vc യുടെ മൂല്യം എന്തുതന്നെ ആയാലും അനന്തമായ നേട്ടം കാരണം 0 സ്ഥിരതയുള്ള അവസ്ഥ കൈവരിക്കാനുള്ള മാർഗം ഒരു ഇന്റഗ്രേറ്റർ നിങ്ങൾക്ക് നൽകുക എന്നതാണ് എറർ 0 ന് തുല്യമാണ് കാരണം Vc ഇൻഫിനിറ്റി 0 ആയിരിക്കും നിങ്ങൾ സ്കെയിലർ ആയി എടുക്കുകയാണെങ്കിൽ സ്കെയിലിംഗ് മൂല്യം Ki ആയി നൽകിയാൽ അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് Ki യെ ആശ്രയിച്ച് 1 ൽ കൂടുതലോ 1 കുറവോ അറ്റന്യൂവേഷനോ ഗെയിനോ സംഭവിക്കാം അതുവഴി ബാൻഡ് വീതി മാറ്റുന്ന വ്യത്യസ്ത സമാന്തരങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കും പ്രതികരണത്തിന്റെ ഈ വേഗതയിൽ നിങ്ങൾക്ക് നിയന്ത്രണത്തിന്റെ അളവുണ്ടെങ്കിൽ Ki എന്നത് ഒരു വശമാണ് അപ്പോൾ ഇത് ഫാഷനിൽ പോകാൻ അനുവദിക്കുന്നതിന് പകരം ഈ അവസരത്തിൽ എവിടെയോ ഇതുപോലെ ഞാൻ അത് പരത്താൻ ശ്രമിച്ചു പിന്നെ ഒമേഗയുടെ ഉത്ഭവത്തിന്റെ ഉയർന്ന ആവൃത്തിയിൽ എനിക്ക് കുറച്ചുകൂടി ഗെയിൻ ഉണ്ട് ഇതിന് എന്റെ ചലനാത്മകത മെച്ചപ്പെടുത്താൻ കഴിയും അതിനർത്ഥം നിങ്ങൾക്ക് വക്രം പരത്തണമെങ്കിൽ എന്റെ ഇന്റഗ്രൽ പ്രവർത്തനം ഇവിടെയുണ്ട് ഇന്റഗ്രേറ്റർ ഈ ഘട്ടത്തിൽ നിങ്ങൾ അതിനെ തരംഗമാക്കാൻ ആഗ്രഹിക്കുന്നു മൈനസ് 20 dB പെർ ഡെകേടിൽ പോകാൻ അനുവദിക്കുന്നതിനുപകരം ഗെയിൻ കെർവ് രൂപപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ അതിനെ 0 dB പെർ ഡെകേടിൽ ആക്കുന്നു എന്താണ് ഇത് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഇവിടെ ഒരു പൂജ്യം ഇടുകയാണ് ഈ ഘട്ടത്തിൽ നിങ്ങൾ ഒരു പൂജ്യം അവതരിപ്പിക്കുന്നു അതിനാൽ ഞാൻ ഒരു ആനുപാതിക ഭാഗം Kp അവതരിപ്പിക്കുകയും നിങ്ങൾ അത് ഇന്റഗ്രൽ ഘടകത്തിലേക്ക് കൂട്ടുകയും ചെയ്യുന്നു ഇപ്പോൾ മറ്റൊരു കാര്യം ഇത് e ആണ് ഇതാണ് Vc അപ്പോൾ Vc യും e യും തമ്മിലുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ് ഇപ്പോൾ ഇത് Kp Ki s Kp s Ki കൂടുതൽ ലളിതമാക്കി ഞാൻ Kp s Ki Kp s എന്ന് പറയും അതിനാൽ ഒരു പ്രൊപ്പോഷണൽ ഗെയിൻ ഉണ്ടാക്കികൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു പൂജ്യം അവതരിപ്പിച്ചു അത് s Ki Kp ക്ക് തുല്യമാണ് അതിനാൽ ഈ Ki Kp അനുപാതം s ω ന് നിങ്ങൾക്ക് ഒരു 0 ഉണ്ട് അത് ഈ കർവ് പരത്തിയിരിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് അധിക ഉയർന്ന ഫ്രീക്വൻസി ഗെയിൻ ലഭിക്കും ഇത് താൽക്കാലിക പ്രതികരണം കുറച്ചുകൂടി നല്ലതാക്കും ഫ്രീക്വൻസി ഡൊമെയ്നിൽ നിന്ന് നോക്കുമ്പോൾ PI കൺട്രോളറിന്റെ ഘടന ഇതാണ് കൂടാതെ PI കൺട്രോളറിന് DC യിൽ അനന്തമായ മൂല്യം അല്ലെങ്കിൽ അനന്തമായ സ്ഥിരതയുള്ള നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ കാണുന്നു കൂടാതെ അനന്തമായ സ്റ്റഡി സ്റ്റേറ്റ് ഗെയിൻ കാരണം PI കൺട്രോളർ സീറോ സ്റ്റഡി സ്റ്റേറ്റ് എറർ നൽകാൻ കഴിവുണ്ട് ഫ്രാക്ഷൻ റെസ്പോൺസ് മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് ഒരു D വളരെ ഉയർന്നതായി ചേർക്കാം പക്ഷേ മിക്കപ്പോഴും ഇത് ആവശ്യമില്ല അതിനാൽ നിങ്ങൾക്ക് ഒരു PID കൺട്രോളർ ആവശ്യമില്ല മിക്ക കേസുകളിലും PI കൺട്രോളർ മതിയാകും നിങ്ങൾ D ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഗെയിൻ വർദ്ധിപ്പിക്കുകയും ഉയർന്ന ശബ്ദമുള്ള ഉയർന്ന ഫ്രീക്വൻസി സോണിൽ നിങ്ങൾ ഒരു ഡെറിവേറ്റീവ് ഘടകം അവതരിപ്പിക്കുകയും ചെയ്യുന്നു അത് ശബ്ദത്തെ വർദ്ധിപ്പിക്കും അതിനാൽ D അല്ലെങ്കിൽ ഡെറിവേറ്റീവ് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം അതിനാൽ ഇതാണ് PI യുടെ ആശയം അതിനാൽ മുമ്പത്തെ പേജിലേക്ക് തിരികെ പോകുമ്പോൾ ഞാൻ ഇപ്പോൾ ഈ ജനറിക് K മായ്ക്കുകയും ഇവിടെ ഒരു PI ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുകയും ചെയ്യും കാരണം PI എനിക്ക് k യുടെ ഒരു മൂല്യം നൽകും കാരണം DC യിലെ അനന്തമായ മൂല്യത്തിന്റെ അനന്തമായ ഗെയിനിനു തുല്യമാണ് അതിനാൽ എററിന്റെ സ്ഥിരമായ മൂല്യം 0 ന് തുല്യമായിരിക്കും അതിനാൽ മിക്ക കൺട്രോളറുകൾക്കും ഒരു PI ടോപ്പോളജി ഉപയോഗിച്ച് ആരംഭിക്കുന്നത് നല്ല രീതിയാണ് തുടർന്ന് അത് അവിടെ നിന്ന് എടുത്ത് ട്യൂൺ ചെയ്ത് അവിടെ നിന്നും എടുക്കുക